മുമ്പ് നമ്മൾ തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ ചില അടിസ്ഥാന വശങ്ങളും ചില ലളിതമായ ഷെഡ്യൂളറുകളും ക്ലോക്ക് ഡ്രൈവുചെയ്ത ഷെഡ്യൂളറുകളും ഇവന്റ് ഡ്രൈവുചെയ്ത ഷെഡ്യൂളറുകളും പരിശോധിച്ചിരുന്നു നിരക്ക് മോണോടോണിക് ഷെഡ്യൂളർ ലളിതവും പ്രായോഗിക ആപ്ലിക്കേഷനുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതും വ്യാപകമായി ഉപയോഗിക്കുന്നതുമാണെന്ന് കണ്ടു എല്ലാ വാണിജ്യ തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും റേറ്റ് മോണോടോണിക് ഷെഡ്യൂളിംഗിനെ പിന്തുണയ്ക്കുന്നുrate monotonic scheduling റേറ്റ് മോണോടോണിക് ഷെഡ്യൂളറുകൾക്ക് കീഴിലുള്ള ചർച്ചയിൽ ടാസ്ക്കുകൾ സ്വതന്ത്രമാണെന്ന് ഞങ്ങൾ അനുമാനിച്ചിരുന്നു അതായത് അവ സ്വന്തം പ്രാദേശിക ഡാറ്റയിൽ പ്രോസസ്സ് ചെയ്യുന്നുവെന്നും ഈ ടാസ്ക്കുകൾക്കിടയിൽ ആശയവിനിമയമില്ലെന്നും എന്നാൽ എല്ലാ യഥാർത്ഥ ആപ്ലിക്കേഷനുകളിലും ടാസ്ക്കുകൾക്ക് വിഭവങ്ങൾ പങ്കിടേണ്ടതുണ്ട് ഈ പ്രഭാഷണത്തിൽ സങ്കീർണ്ണത പരിചയപ്പെടുത്തുന്ന വിഭവ പങ്കിടൽ ഞങ്ങൾ ചർച്ച ചെയ്യും ടാസ്ക് ഷെഡ്യൂളിംഗ് വിശകലനം മാറ്റേണ്ടതുണ്ട് കൂടാതെ വിഭവങ്ങൾ പങ്കിടാൻ പുതിയ അൽഗോരിതങ്ങൾ ആവശ്യമാണ് ഏത് സമയത്താണ് ഏത് ടാസ്ക് പ്രവർത്തിക്കേണ്ടത് എന്നതായിരുന്നു പ്രധാന ആശങ്ക അതാണ് ഞങ്ങളുടെ ലളിതമായ ഷെഡ്യൂളിംഗ് പ്രശ്നം സിപിയുവിനെ ഒരു റിസോഴ്സായിട്ടാണ് പരിഗണിക്കുന്നതെങ്കിൽ സിപിയു വീണ്ടും വീണ്ടും പുനരുപയോഗിക്കാവുന്ന ഒരു റിസോഴ്സാണെന്ന് പറയാം എപ്പോൾ വേണമെങ്കിലും ഒരു ടാസ്ക് സിപിയുവിൽ പ്രവർത്തിപ്പിക്കാമെന്നതാണ് സീരിയൽ ആയി പുനരുപയോഗിക്കാവുന്ന റിസോഴ്സ് എന്നാൽ അതേ സമയം തന്നെ ഓർക്കണം സിപിയുവിൽ പ്രവർത്തിക്കുന്ന ഒരു ടാസ്ക് എപ്പോൾ വേണമെങ്കിലും കൃത്യത ബാധിക്കാതെ പ്രീ എംപേറ്റ് ചെയ്യാം എന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു സമയം ഒരു ടാസ്ക് മാത്രമേ സിപിയുവിന് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂവെങ്കിലും ഞങ്ങൾക്ക് ഉയർന്ന മുൻഗണനയുള്ള ഒരു ടാസ്ക് ഉള്ളപ്പോൾ ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും കുറഞ്ഞ മുൻഗണനയുള്ള ഒരു ടാസ്ക് മുൻകൂട്ടി കാണാനും ടാസ്ക് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് നിന്ന് പ്രവർത്തിപ്പിക്കാനും കഴിയും എന്നിട്ടും ഞങ്ങളുടെ ഫലങ്ങൾ ശരിയായിരിക്കും എന്നാൽ ഇവിടെ നമ്മൾ സീരിയൽ ആയി പുനരുപയോഗിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ not serially reusable പരിശോധിക്കാൻ പോവുകയാണ് മുൻകൂട്ടി നിശ്ചയിക്കാനാവാത്ത വിഭവങ്ങളാണിവ ഞങ്ങൾ നിർണ്ണായക വിഭാഗങ്ങളും നോക്കുന്നു ഒരു ടാസ്ക് ഒരിക്കൽ റിസോഴ്സ് ഉപയോഗിച്ചുകഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ടാസ്ക് പ്രവർത്തിപ്പിക്കേണ്ടതും റിസോഴ്സിന്റെ ഉപയോഗം പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കേണ്ടതും വരും എന്നാലത് എപ്പോൾ വേണമെങ്കിലും ആകാം മുൻകൂട്ടി കാണാനാവില്ല മുൻകൂട്ടി നിശ്ചയിക്കാനാവാത്ത വിഭവങ്ങളുടെ ചില ഉദാഹരണങ്ങൾ ഒരു ഫയൽ ടാസ്ക്കുകൾ പങ്കിടുന്ന ഒരു ഡാറ്റാ സ്ട്രക്ചർഎന്നിവ ആണ് ഒരു ടാസ്ക് അത് ഉപയോഗിച്ചുതുടങ്ങിയാൽ ഫലങ്ങൾ സ്ഥിരതയുള്ള ഒരു പോയിൻറ് വരെ അത് ഉപയോഗിക്കണം എങ്കിലേ തുടർന്ന് അത് മുൻകൂട്ടി നിർണ്ണയിക്കാൻ കഴിയുകയുള്ളൂ ഫയലുകൾ ഡാറ്റാ സ്ട്രക്ചറുകൾ ഉപകരണങ്ങൾ മുതലായവ മുൻകൂട്ടി നിർണ്ണയിക്കാൻ കഴിയാത്ത വിഭവങ്ങളുടെ ഉദാഹരണങ്ങളാണ് അവിടെ ഒരു ടാസ്ക് ഒരിക്കൽ ഈ വിഭവങ്ങൾ ഉപയോഗിച്ചുതുടങ്ങിയാൽ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഈ വിഭവങ്ങൾ പൂർത്തിയാക്കുകയോ അല്ലെങ്കിൽ യുക്തിസഹമായി അവസാനിക്കുകയോ വേണം അല്ലെങ്കിൽ ഫലങ്ങൾ പൊരുത്തപ്പെടുന്നില്ല ഉദാഹരണത്തിന് ഒരു കൂട്ടം ഡാറ്റയുണ്ട് ഒരു ടാസ്ക് ചില ഭാഗങ്ങൾ മാത്രമേ മാറ്റിയിട്ടുള്ളൂ അല്ലെങ്കിൽ അത് ചില ഭാഗങ്ങൾ വായിച്ചിരിക്കാം തുടർന്ന് ഇത് എഴുതുന്നതിനുമുമ്പ് ഞങ്ങൾ അത് മുൻകൂട്ടി നിശ്ചയിച്ചു മറ്റൊരു ടാസ്ക് റിസോഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഡാറ്റയെ തിരുത്തിയെഴുതി തുടർന്ന് അത് വായിച്ച ടാസ്ക്കിന് പഴയ ഡാറ്റ ലഭിച്ചു അത് പൊരുത്തപ്പെടുന്നില്ല അത് ഡാറ്റ വായിച്ചിരിക്കണം തുടർന്ന് ഫലം മാത്രമേ തിരികെ നൽകൂ അപ്പോൾ അത് സ്ഥിരമായ അവസ്ഥയിൽ നിന്ന് പുറത്തുപോകുമായിരുന്നു അടുത്ത ചോദ്യം ഉയർന്നുവരുന്നത് നിർണായക വിഭാഗങ്ങളെക്കുറിച്ചാണ് അടിസ്ഥാനപരമായി ഒരു നിർണ്ണായക വിഭാഗം കോഡിന്റെ ഒരു ഭാഗമാണ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാണിത് ഇതിൽ ചില പങ്കുവെക്കാനാകാത്ത മുൻകൂട്ടി റിസോഴ്സ് ആക്സസ് ചെയ്യപ്പെടുന്ന ഭാഗമാണ് മുൻകൂട്ടി നിർണ്ണയിക്കാൻ കഴിയാത്ത ചില ഉറവിടങ്ങൾ ആക്സസ് ചെയ്യുന്നതും വായിക്കുന്നതും എഴുതുന്നതുമായ കോഡിന്റെ ഒരു വിഭാഗമാണ് നിർണ്ണായക വിഭാഗം മാത്രമല്ല എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുസ്തകങ്ങളിലും ഈ വിഭാഗത്തെ ഒരു നിർണ്ണായക വിഭാഗമായി വിളിക്കുന്നു എന്നാൽ നമുക്കറിയാവുന്നതുപോലെ ഒരു ടാസ്ക് അതിന്റെ നിർണായക വിഭാഗം നിർവ്വഹിക്കുമ്പോൾ അത് മുൻകൂട്ടി കാണേണ്ടതില്ല കാരണം അത് അതിന്റെ നിർണായക വിഭാഗത്തിനുള്ളിലാണെങ്കിൽ അതിന്റെ നിർണായക വിഭാഗം നടപ്പിലാക്കുന്നതിലൂടെ അത് മുൻകൂട്ടി ലഭിക്കുന്നു തുടർന്ന് ഫലം പൊരുത്തമില്ലാത്തതും തെറ്റായ ഫലങ്ങളും ആയിരിക്കും നിർമ്മിച്ചത് നിർണായക വിഭാഗം നടപ്പിലാക്കുന്നതിനുള്ള പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റം പരിഹാരത്തെക്കുറിച്ച് ചോദ്യം ഉയരുന്നു ഇത് സെമാഫോറുകളാണ് ടാസ്ക് വിഭവങ്ങൾ പങ്കിടുന്ന ഒരു തത്സമയ അപ്ലിക്കേഷനിൽ ഞങ്ങൾക്ക് സെമാഫോർ ഉപയോഗിക്കാൻ കഴിയില്ല തത്സമയ അപ്ലിക്കേഷനിൽ സെമാഫോർ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഇത് രണ്ട് മോശം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു മുൻഗണനാ വിപരീതവും അതിരുകളില്ലാത്ത മുൻഗണന വിപരീതവും പരിധിയില്ലാത്ത മുൻഗണന വിപരീതവും ഒരു ടാസ്ക് അതിന്റെ സമയപരിധി നഷ്ടപ്പെടുത്തുന്നതിനും അപ്ലിക്കേഷന്റെ പരാജയത്തിനും കാരണമാകുന്നു ഞങ്ങൾ നിർണായക വിഭാഗം ജോലികൾ നിർവഹിക്കുന്നതിന് ഒരു പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളാണിവ ഈ രണ്ട് പ്രശ്നങ്ങൾ ചുവടെ ചേർക്കുന്നുമുൻഗണന വിപരീതം അതിരുകളില്ലാത്ത മുൻഗണന വിപരീതം ആദ്യം നമുക്ക് മുൻഗണന ചർച്ച ചെയ്യാം മുൻഗണനാ വിപരീതം മനസ്സിലാക്കാൻ നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം എന്തെന്നാൽ ഒരു ജോലി അതിൻറെ നിർണായക വിഭാഗത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു നമുക്കറിയാം ഒരു ജോലി അതിൻറെ നിർണായക വിഭാഗത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് മുൻഗണന നൽകാൻ സാധിക്കില്ല അതിന് വേണ്ടി നമുക്ക് സെമഫോർ ഉപയോഗിക്കാം അതിനാൽ ടാസ്ക് സെമഫോർ വിളിക്കുകയും മുൻഗണനാ വിഭാഗം ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ടാസ്ക് അതിന്റെ നിർണായക വിഭാഗം നിർവ്വഹിക്കുമ്പോൾ അത് മുൻകൂട്ടി നിർണ്ണയിക്കാൻ കഴിയാത്തതിനാൽ അതിനിടയിൽ തയ്യാറായ ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക് കാത്തിരിക്കേണ്ടതുണ്ട് കാരണം അതിന്റെ നിർണ്ണായക വിഭാഗം നിർവ്വഹിക്കുന്ന ചുമതല മുൻകൂട്ടി നിർണ്ണയിക്കാൻ കഴിയില്ല ഒരു നിർണായക വിഭാഗം നിർവ്വഹിക്കുന്ന ചുമതല വളരെ കുറഞ്ഞ മുൻഗണനയുള്ള ഒരു ജോലിയായിരിക്കാം ഒരു ലോഗിംഗ് പറയുക ഒരു ഫല ലോഗിംഗ് തുടർന്ന് ഞങ്ങൾക്ക് ഉയർന്ന മുൻഗണനയുള്ള ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു നിർണായക ചുമതലയുണ്ട് അത് തയ്യാറായിക്കഴിഞ്ഞു പക്ഷേ അത് മുമ്പായി കാത്തിരിക്കുന്നു നിർവ്വഹിക്കുന്ന ടാസ്ക് സെമാഫോർ റിലീസ് ചെയ്യുന്നു അതിനാൽ ഈ സാഹചര്യത്തെ മുൻഗണനാ വിപരീതം എന്ന് വിളിക്കുന്നു മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ സംഗ്രഹിക്കാം മുൻഗണനാ വിപരീതം എന്ന പദം സൂചിപ്പിക്കുന്നത് കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് അതിന്റെ നിർണായക വിഭാഗത്തിൽ എക്സിക്യൂട്ട് ചെയ്യുകയും തയ്യാറായി നിൽക്കുന്ന ഉയർന്ന മുൻഗണന ഉള്ള ജോലി ചെറിയ മുൻഗണന ഉള്ള ജോലി മുൻഗണന നൽകുന്നത് വരെ കാത്തുനിൽക്കുകയും വേണം അപ്പോൾ ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക് തയ്യാറായതിനാൽ റിസോഴ്സ് ആവശ്യമാണ് അത് തയ്യാറാണെങ്കിൽ അത് ഒരു റിസോഴ്സ് ആവശ്യമില്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ കഴിയും എന്നാൽ ഉയർന്ന മുൻഗണനാ ചുമതലയ്ക്ക് റിസോഴ്സ് ആവശ്യമാണ് കൂടാതെ കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് അതിന്റെ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയാൻ കഴിയില്ല അതിനാൽ ഉയർന്ന മുൻഗണനാ ചുമതല കാത്തിരിക്കുന്നു മുൻഗണന കുറഞ്ഞ ചുമതല റിസോഴ്സ് റിലീസ് ചെയ്യുന്നതുവരെ മുൻഗണന വിപരീത ത്തിൻറെ ഒരു ഉദാഹരണമാണ് ആണ് ഇനി പറയുന്നത് കുറഞ്ഞ മുൻഗണന ഉള്ള ഒരു ജോലി T Lshown ഉണ്ടെന്ന് കരുതുക അതിൻറെ കയ്യിൽ ഉണ്ട് ഒരു വിഭവം ഉണ്ട് R കുറച്ച് കണക്കുകൂട്ടൽ R ചെയ്യുകയും ചെയ്യുന്നു Rഎന്ന് പറയുന്നത് പങ്കിടുന്ന മുൻഗണന ഇല്ലാത്ത ഒരു വിഭവമാണ് ഒരു മുൻഗണന ജോലിക്ക് അതിനെ ആവശ്യമുണ്ട് എന്നാൽ കുറഞ്ഞ മുൻഗണനാ ചുമതല യഥാർത്ഥത്തിൽ റിസോഴ്സ് ഉപയോഗിച്ച് പൂർത്തിയാക്കുകയും സെമാഫോർ റിലീസ് ചെയ്യുകയും ചെയ്യുന്നതുവരെ ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക്കിന് ആ ഉറവിടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല ഉയർന്ന മുൻഗണനയുള്ള ചുമതല തുടരുന്നുകാത്തിരിക്കുന്നു കുറഞ്ഞ മുൻഗണനാ ചുമതല വളരെക്കാലം റിസോഴ്സ് കൈവശം വച്ചിട്ടുണ്ടെങ്കിൽ ഉയർന്ന മുൻഗണന ചുമതലക്ക് അതിന്റെ സമയപരിധിനഷ്ടപ്പെടും മുൻഗണന വിപരീതം മോശമല്ലെന്ന് തുടർന്ന് നമുക്ക് കാണാം മുൻഗണനാ വിപരീത പ്രശ്നം ശ്രദ്ധാപൂർവ്വമായ ഡിസൈൻ ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയും പക്ഷേ പരിഹരിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രശ്നം അതിരുകളില്ലാത്ത മുൻഗണന വിപരീതമാണ് എന്നാൽ ആദ്യം അതിരുകളില്ലാത്ത മുൻഗണനാ വിപരീതം മനസിലാക്കാം തുടർന്ന് പരിഹരിക്കാനുള്ള പ്രയാസവും പിന്നീട് ഈ ലളിതമായ മുൻഗണനാ വിപരീതത്തിനുള്ള പരിഹാരവും കാണാം പരിധിയില്ലാത്ത മുൻഗണന വിപരീതം മനസിലാക്കുന്നതിനുള്ള സാഹചര്യം ഇനിപ്പറയുന്നവയാണ് ഒരു മുൻഗണന കുറഞ്ഞ ടാസ്ക് ഉണ്ട് അത് ഒരു റിസോഴ്സ് കൈവശം വയ്ക്കുകയും അതുവഴി അതിന്റെ നിർണായക വിഭാഗം നടപ്പിലാക്കുകയും ചെയ്യുന്നു അതേസമയം ഉയർന്ന മുൻഗണനയുള്ള ഒരു ടാസ്ക് ആ റിസോഴ്സിനായി കാത്തിരിക്കുന്നു കാരണം റിസോഴ്സ് കൈവശം വച്ചിരിക്കുന്ന കുറഞ്ഞ മുൻഗണനാ ചുമതല കാരണം ആ റിസോഴ്സിന്റെ ഉപയോഗം പൂർത്തിയാക്കുന്നതിന് മുമ്പായി അത് ഉപയോഗിക്കാൻ കഴിയില്ല ഉയർന്ന മുൻഗണനയുള്ള ചുമതല കാത്തിരിക്കണം ഇത് ആണ് മുൻഗണനാ വിപരീതങ്ങൾ അതിരുകളില്ലാത്ത മുൻഗണന വിപരീതങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ കുറേ ഇന്റർമീഡിയറ്റ് മുൻഗണന ടാസ്കുകൾ ഉള്ളപ്പോഴാണ് അവർക്ക് വിഭവങ്ങൾ വേണ്ട അതിനാൽ അവർക്ക് എക്സിക്യൂട്ട ചെയ്യാനും സിപിയു ഉപയോഗിക്കാനും സാധിക്കും റിസോഴ്സ് കൈവശം വച്ചിരുന്ന കുറഞ്ഞ മുൻഗണനാ ടാസ്കിന് അതിന്റെ കണക്കുകൂട്ടലിൽ പുരോഗതി കൈവരിക്കാൻ കഴിയില്ല കാരണം ഇന്റർമീഡിയറ്റ് മുൻഗണനാ ചുമതലയ്ക്ക് അതേ റിസോഴ്സ് ആവശ്യമില്ല അതിനാൽ അവർ സിപിയുവിൽ തുടർന്നും പ്രവർത്തിക്കുന്നു തടയപ്പെടുന്നില്ല കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക്കിന് അതിന്റെ നിർവ്വഹണം പൂർത്തിയാക്കാൻ കഴിയില്ല മാത്രമല്ല ഉറവിടം കൈവശം വയ്ക്കുകയും സിപിയുവിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു അതേസമയം ഉയർന്ന മുൻഗണനയുള്ള ചുമതല കാത്തിരിക്കുന്നു അതിനാൽ ഇത് ഒരു മോശം അവസ്ഥയാണ് കാരണം കുറഞ്ഞ മുൻഗണനാ ചുമതല ഒരു റിസോഴ്സ് കൈവശം വയ്ക്കുകയും ഉയർന്ന മുൻഗണനയുള്ള ചുമതല കാത്തിരിക്കുകയും ചെയ്യുന്നു ഇത് ലളിതമായ മുൻഗണന വിപരീതമാണ് കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് സിപിയു ഉപയോഗിക്കുന്നതിൽ നിന്ന് മുൻകൂട്ടി നിർണ്ണയിക്കപ്പെടുമ്പോൾ പരിധിയില്ലാത്ത മുൻഗണനാ വിപരീത സാഹചര്യം സംഭവിക്കുന്നു അതിനാൽ കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക്കിന് അതിന്റെ വിഭവ ഉപയോഗത്തിലൂടെ പുരോഗതി കൈവരിക്കാൻ കഴിയില്ല കൂടാതെ ഇന്റർമീഡിയറ്റ് മുൻഗണനാ ചുമതല സിപിയുവിൽ തുടർന്നും പ്രവർത്തിക്കുന്നു പരിധിയില്ലാത്ത മുൻഗണന വിപരീതം ഇനിപ്പറയുന്ന ഉദാഹരണം വിശദീകരിക്കുന്നു നമുക്ക് ഇവിടെ ഒരു ഗ്രീൻ ബോക്സായി കാണിച്ചിരിക്കുന്ന ഒരു റിസോഴ്സ് ഉണ്ടെന്ന് കരുതുക എക്സിക്യൂട്ട് ചെയ്യുന്ന ടാസ്ക് T10 ന് കുറഞ്ഞ മുൻഗണനാ ചുമതലയുണ്ട് എക്സിക്യൂഷനിൽ കുറച്ച് സമയത്തിന് ശേഷം ഇതിന് റിസോഴ്സ് ആവശ്യമാണ് ഇത് മുൻകൂട്ടി അറിയിക്കാനാവാത്ത പങ്കിട്ട റിസോഴ്സാണ് റിസോഴ്സ് ലഭ്യമായതിനാൽ T10 റിസോഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങുന്നു എന്നാൽ അത് റിസോഴ്സ് ഉപയോഗിച്ചുതുടങ്ങിയതിനുശേഷം വളരെ ഉയർന്ന മുൻഗണനയുള്ള ഒരു ദൌത്യം നിർവ്വഹിക്കാൻ തുടങ്ങി അതിന് ഇപ്പോൾ റിസോഴ്സ് ആവശ്യമാണ് പക്ഷേ ടി 10 തടയാൻ കഴിയില്ല അതിനാൽ ഉയർന്ന മുൻഗണന ഉള്ള T2 T10 തീരുന്നതിനു വേണ്ടി വേണ് കാത്തിരിക്കുന്നു എന്നാൽ കൂടുതൽ മുൻഗണന ഉള്ള ജോലികൾ T3 T5 etc തയ്യാറാവുകയും സി പി യു ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്യുന്നു T10 എന്ന് എക്സിക്യൂഷൻ തീർക്കാൻ ആകുന്നില്ല T2 കാത്തിരിക്കുന്നു T2 ലളിതമായി T10 നായി കാത്തിരിക്കുമ്പോൾ ഇവിടെ ഒരു ലളിതമായ മുൻഗണന വിപരീതം സംഭവിക്കുന്നു എന്നാൽ T2 നെക്കാൾ കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക്കുകൾ നടപ്പിലാക്കാൻ ആരംഭിക്കുന്നിടത്ത് അതിരുകളില്ലാത്ത മുൻഗണന വിപരീതം സംഭവിക്കുന്നു കാരണം അവ T10 നെക്കാൾ ഉയർന്ന മുൻഗണനയുള്ളതിനാൽ T2 പരസ്പരം മുൻഗണനാ വിപരീതത്തിന് വിധേയമാകുന്നു പിന്നീട് T5 T3 T7 തുടങ്ങിയവ കാരണം ഉദാഹരണത്തിന് ഇവിടെ എക്സ് ആക്സിസിൽ സിപിയു ഉപയോഗിക്കുന്ന ടാസ്ക് അവ എത്രത്തോളം സിപിയു ഉപയോഗിച്ച് നീളുന്നു പ്ലോട്ട് ചെയ്തു Y അക്ഷത്തിൽ ടാസ്ക്കുകൾ പ്ലോട്ട് ചെയ്യുന്നു T1 ആണ് ഏറ്റവും ഉയർന്ന ത്മുൻഗണനയും T6 ഉം ഏറ്റവും കുറഞ്ഞ മുൻഗണനയും T2 T3 T4 T5 മുതലായവയും ഇന്റർമീഡിയറ്റ് മുൻഗണനയാണ് തുടക്കത്തിൽ ടി 6 ഓവർടൈം എക്സിക്യൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു കുറച്ച് സമയത്തിന് ശേഷം ഇതിന് മുൻഗണന ഇല്ലാത്ത റിസോഴ്സ് ആവശ്യമാണ്കൂടാതെ ഇത് ഒരു നിർണായക റിസോഴ്സ് CR ആണ്എന്നാൽ നിർണായക റിസോഴ്സ് ആരും ഉപയോഗിക്കാത്തതിനാൽ അത് ലോക്ക് ചെയ്യും ചെയ്യുകയും ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്യാം പക്ഷേ കുറച്ചു സമയത്തിനുശേഷം T1 തയ്യാറാവുകയും എക്സിക്യൂട്ട് ചെയ്തു തുടങ്ങുകയും ചെയ്തു T1 കൂടുതൽ മുൻഗണന ഉണ്ടായതിനാൽ T6 തടയാം പക്ഷേ കുറച്ചു കഴിഞ്ഞതിനുശേഷം അതിന് നിർണായക വിഭവം CR ആവശ്യമായി എന്നാൽ T6 എന്നാൽ ഉപയോഗിച്ച് കഴിഞ്ഞതിനു ശേഷം മാത്രമേ CR കിട്ടുകയുള്ളൂ അതിനാൽ T1 കാത്തുനിൽക്കും അതേസമയം T2 T3 T4 മുതലായവ വിഭവം ആവശ്യമില്ലാത്ത ജോലികൾ തയ്യാറായി ആദ്യം T5 തയ്യാറായി നിർണായക റിസോഴ്സിനായുള്ള T1 ബ്ലോക്കുകൾ വന്നയുടനെ T5 എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം T3 തയ്യാറായി അത് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു കുറച്ച് സമയത്തിന് ശേഷം T4 തയ്യാറായി എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു തുടർന്ന് T2 തയ്യാറായി എക്സിക്യൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു വീണ്ടും T5 ന്റെ അടുത്ത ഉദാഹരണം തയ്യാറായി എക്സിക്യൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു T6 കാത്തിരിക്കുമ്പോൾ ആണ് ഇവയെല്ലാം നിർണായക വിഭവത്തിന്റെ ഉപയോഗം ഇതിന് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നാൽ വളരെക്കാലത്തിനുശേഷം ഈ ഓരോ ജോലിയും ടാസ്ക് T 1 ലേക്ക് മുൻഗണനാ വിപരീതത്തിന് കാരണമാകുന്ന നിരവധി മുൻഗണനാ വിപരീതങ്ങൾക്ക് ശേഷം ടാസ്ക് ടി 6 റിസോഴ്സ് നേടുകയും എക്സിക്യൂട്ട് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുന്നു കുറച്ച് സമയത്തിന് ശേഷം അത് സിആർ അൺലോക്ക് ചെയ്തു റിസോഴ്സ് റിലീസ് ചെയ്യുന്നു ആ സമയത്ത് മാത്രമേ T1 ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയൂ T1 ടാസ്ക് ഒന്നിലധികം മുൻഗണനാ വിപരീതത്തിന് വിധേയമായി ഏറ്റവും മോശം അവസ്ഥയിൽ T6 ന് ഒരിക്കലും സിപിയു ലഭിക്കാനിടയില്ല കൂടാതെ T1 ന് അതിരുകളില്ലാത്ത മുൻഗണനാ വിപരീതവും ലഭിച്ചേക്കാം അവിടെ അത് എത്ര വിപരീതങ്ങൾക്ക് വിധേയമാകുമെന്ന് നമുക്കറിയില്ല പരിധിയില്ലാത്ത മുൻഗണന വിപരീതം ഒരു തത്സമയ അപ്ലിക്കേഷനുകളിലെ ഒരു പ്രധാന പ്രശ്നമാണ് പരിധിയില്ലാത്ത മുൻഗണന വിപരീത പ്രശ്നത്തെ വേണ്ടവിധം പരിപാലിക്കാൻ കഴിയാത്തതിനാൽ മുൻകാലത്തെ നിരവധി അപ്ലിക്കേഷനുകൾ പരാജയപ്പെട്ടു ഇവിടെ കുറഞ്ഞ മുൻഗണനയുള്ള ഒരു ടാസ്ക് ടിഎൽ പ്രതീക്ഷിക്കാത്ത വിഭവങ്ങൾ R കൈവശം വയ്ക്കുന്നു അതിനാൽ ടിഎൽ അതിന്റെ നിർണായക വിഭാഗത്തിലാണ് എക്സിക്യൂഷന് കുറച്ച് സമയത്തിന് ശേഷം നോൺ പ്രിംപ്റ്റബിൾ റിസോഴ്സ് ആർ ഉപയോഗിക്കും അതിനാൽ എക്സ് ആക്സിസ് ടൈം ആക്സിസാണ് ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക് തയ്യാറാകുകയും അതിന്റെ എക്സിക്യൂഷന് ശേഷം കുറച്ച് സമയം റിസോഴ്സ് ആർ ആവശ്യമാണ് പക്ഷേ ടിഎൽ ഇതിനകം തന്നെ അത് ലോക്ക് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഉയർന്ന മുൻഗണനാ ചുമതല ടിഎൽ വിഭവം റിലീസ് ചെയ്യുന്നതുവരെ കാത്തിരിക്കേണ്ടിവരും അതേസമയം ടിഎല്ലിനേക്കാൾ ഉയർന്ന മുൻഗണനയുള്ളതും എന്നാൽ ടിഎച്ചിനേക്കാൾ കുറഞ്ഞ മുൻഗണനയുള്ളതുമായ ടാസ്ക്കുകൾ ഉയർന്നുവരികയും നടപ്പാക്കുകയും ചെയ്യുന്നു അതിനാൽ ടിഎല്ലിന് സിപിയു നേടാൻ കഴിയില്ല അതിനാൽ മുൻഗണനയില്ലാത്ത വിഭവം ഉപയോഗിച്ച് അതിന്റെ എക്സിക്യൂഷൻ പൂർത്തിയാക്കാൻ കഴിയില്ല തന്മൂലം ഉയർന്ന മുൻഗണനാ ടാസ്ക് ഒന്നിലധികം വിപരീതങ്ങളെ ബാധിക്കുന്നു മാത്രമല്ല ഇത് എത്ര തവണ വിപരീതഫലങ്ങൾ നേരിടുന്നുവെന്നും അത് വളരെയധികം വിപരീതങ്ങൾ നേരിടുന്നുണ്ടെന്നും പ്രവചിക്കാൻ കഴിയില്ല ഏറ്റവും മോശം അവസ്ഥയിൽ ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക് അനുഭവിക്കുന്ന മുൻഗണനാ വിപരീതത്തിന്റെ എണ്ണം പരിധിയില്ലാത്തവരായിത്തീരുക ഈ സാഹചര്യം ഉയർന്ന മുൻഗണനയുള്ള ചുമതല അതിന്റെ സമയപരിധി നഷ്ടപ്പെടുത്താൻ കാരണമാകും അതിനാൽ ഓരോ തത്സമയ ആപ്ലിക്കേഷൻ ഡവലപ്പർമാരും മതിയായ മുൻകരുതലുകൾ എടുക്കണം പരിധിയില്ലാത്ത മുൻഗണന വിപരീത ത്തിനെതിരെ ഈ പ്രശ്നം മനസിലാക്കണം അത് പ്രധാനമാണ് അത് എപ്പോൾ ഉണ്ടാകാമെന്നും പരിധിയില്ലാത്ത മുൻഗണനയുടെ പ്രശ്നം എപ്പോൾ മറികടക്കാമെന്നും അറിയുക വിപരീതം ഈ പ്രശ്നം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറ്റവും മോശം സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക് തീർച്ചയായും അതിന്റെ സമയപരിധി നഷ്ടപ്പെടുത്തും ഒരു ഡിസൈനറും ആപ്ലിക്കേഷനും തത്സമയ ആപ്ലിക്കേഷൻ ഡവലപ്പർ പരിധിയില്ലാത്തവ മുൻഗണനാ വിപരീത പ്രശ്നം ശരിയായികൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ തുടർന്ന് വളരെയധികം മുൻഗണനാ വിപരീതങ്ങളും ഉണ്ടാകാം അതുപോലെ നിർണായക ടാസ്ക്കിന് അതിന്റെ സമയപരിധി നഷ്ടമാകും മുൻകാലങ്ങളിൽ ഡിസൈനർമാർക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയാത്ത നിരവധി ഉദാഹരണങ്ങൾ ഉണ്ട് ഇവ സിസ്റ്റം പരാജയപ്പെടുത്തുകയും ചെയ്തു ഈ നിരവധി ഉദാഹരണങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായ ഉദാഹരണം മാർസ് പാത്ത്ഫൈൻഡറാണ് മാർസ് പാത്ത്ഫൈൻഡർ സംഭവം ചുവടെ ഒരു നിർണായക വിഭാഗം സെമാഫോറുകൾമുൻഗണനാ വിപരീതം എന്നിവയുമായി ബന്ധപ്പെട്ട ചില ലളിതമായ ആശയങ്ങൾ ചുവടെ ചേർക്കുന്നു T1T3 എന്നീ രണ്ട് ജോലികൾ ഒരു വിഭവം പങ്കിടുന്നുവെന്ന് കരുതുക മുൻകൂട്ടി നിശ്ചയിക്കാനാവാത്ത ഒരു റിസോഴ്സാണ് കൂടാതെ എക്സ്ക്ലൂസീവ് മോഡിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട് പിന്തുടരുന്നു T1 T3 എന്നിവ ചെയ്യുന്ന പ്രക്രിയകളുടെ കോഡിന്റെ സംഗ്രഹം ആണ് ഇനി ലോക്കൽപ്രോസസ്സിംഗ് ചെയ്തതിനുശേഷം അവർ സെമാഫോറിനായി കാത്തിരിക്കുകയും സെമാഫോർനേടുകയും ചെയ്താൽ അവർ പങ്കിട്ട ഉറവിടത്തിലേക്ക് പ്രവേശിക്കുകയും ഒടുവിൽ അവർ സെമാഫോർ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു റിസോഴ്സ് ആക്സസ് ചെയ്യുന്നതിനായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിതരണം ചെയ്യുന്ന രണ്ട് പ്രൈമിറ്റീവുകൾ സെമാഫോർ കാത്തിരിപ്പ്സിഗ്നൽ ആണ് അവയെ സൂചിപ്പിക്കുന്നതിനു വേണ്ടി P V ഉപയോഗിക്കുന്നു കോഡിന്റെ ഈ ഭാഗത്തെ ഒരു കോഡിന്റെ നിർണായക വിഭാഗം എന്ന് വിളിക്കുന്നു പിന്നീട് കൂടുതൽ പ്രാദേശിക പ്രോസസ്സിംഗ് നടത്താം നമുക്ക് ഇവിടെ നിർത്താം ബാക്കി അടുത്ത ക്ലാസ്സിൽ നന്ദി